കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നത് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ്നെ കുറിച്ചാണ് അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് STA യിൽ ഓർക്കുന്നുവെങ്കിൽ സാധാരണ ഗേറ്റുകളുടെ തലത്തിൽ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിന്റെ ഓരോ ഇന്റർസെക്റ്റിങ് പോയിന്റുകൾക്കും യഥാർത്ഥ അറൈവൽ സമയം ആവശ്യമായ അറൈവൽ സമയം സ്ലാക്ക് എന്ന വ്യത്യാസം എന്നിങ്ങനെ കണക്കുകൂട്ടി അതിനാൽ സ്ലാക്ക് നോക്കുന്നതിലൂടെ ഏതൊക്കെ നെറ്റ്കളാണ് നെറ്റ് ലിസ്റ്റിലെ ഏത് സെഗ്മെന്റുകൾ നിർണായകമാണ് ചില സ്ലാക്കുകൾ നെഗറ്റീവ് ആകാം എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും ഒരു സ്ലാക്ക് നെഗറ്റീവ് ആയിത്തീർന്നാൽ തുടർന്നുള്ള ഘട്ടത്തിൽ ഗേറ്റുകളുടെയോ വയറുകളുടെയോ സൈസും കാലതാമസവും അല്ലെങ്കിൽ ബഫറുകൾ ചേർക്കുന്നതും ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ സ്ലാക്കുകൾ പോസിറ്റീവ് ആക്കാം ഇപ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് സമയ ലംഘനങ്ങളൊന്നും നൽകുന്നില്ലെന്ന് നിങ്ങൾ കരുതുക എന്നാൽ നമ്മൾ കണ്ടെത്തുന്നത് പല വരികളിലും ഞങ്ങൾക്ക് വളരെ ഉയർന്ന പോസിറ്റീവ് സ്ലാക്ക് മൂല്യമുണ്ട് പോസിറ്റീവ് സ്ലാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം ഞങ്ങളുടെ വരവ് സമയം യഥാർത്ഥ വരവ് സമയത്തേക്കാൾ വലുതാണ് എന്നാണ് ഇത് വളരെ വലുതാണെന്ന് കണ്ടെത്തിയെന്ന് കരുതുക അതിനാൽ അത് നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്യൂട്ട് വേണം അതിനാൽ അനാവശ്യമാണെങ്കിൽ വളരെ വലിയ പോസിറ്റീവ് സ്ലാക്ക് നൽകുക അതായത് ഞാൻ സർക്യൂട്ട് വേഗത കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ സിഗ്നൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്റെ ആവശ്യം ഇതാണ് എന്നാണ് ഞാൻ അനാവശ്യമായി ഈ സിഗ്നൽ നേരത്തെ എത്താൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ എനിക്ക് ചില കാലതാമസങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും എനിക്ക് ചില ഗേറ്റുകൾ ചെറുതാക്കാം എനിക്ക് മറ്റ് തരത്തിലുള്ള ഒപ്റ്റിമൈസേഷനുകൾ ചെയ്യാൻ കഴിയും ഈ സ്ലാക്കുകൾ കഴിയുന്നത്ര 0 ആയി അടുപ്പിക്കുന്നു ശരിയായ ഘട്ടങ്ങളിലെ ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയകളിൽ ഒന്നാണിത് അതിനാൽ സമയത്തിന്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ കാലതാമസം വരുത്തുന്നതിലൂടെ എനിക്ക് എന്റെ ഡിസൈനിന്റെ സങ്കീർണ്ണത കുറയ്ക്കാൻ കഴിയും കാലതാമസം വരുത്തുന്നതിലൂടെ എനിക്ക് ചില പോസിറ്റീവ് സ്ലാക്കുകൾ 0 നടുത്ത് ആക്കാൻ കഴിയും അത് 0 ന് അടുത്താണെങ്കിൽ എന്റെ രൂപകൽപ്പനയിൽ ഞാൻ സന്തുഷ്ടനാണ് ലഭ്യമായ റിസോഴ്സ്സ്സ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനത്തിലേക്കുള്ള ഒരു തരത്തിലുള്ള വിപുലീകരണമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എടുക്കുന്നത് അത് സീറോ സ്ലാക്ക് അൽഗോരിതം എന്നറിയപ്പെടുന്ന വളരെ അറിയപ്പെടുന്ന അൽഗോരിതം ആണ് അതിനാൽ എല്ലാ ലൈനുകളിലും ഈ സ്ലാക്കുകൾ 0 ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്ന പ്രക്രിയ അതിനാൽ നമുക്ക് അത് പരിശോധിക്കാം അതിനാൽ ഡിലേയ് ബജറ്റിംഗ് എന്നൊരു ആശയം ഞങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ഓരോ ഗേറ്റിന്റെയും ഔട്ട്പുട്ടിൽ ഞങ്ങൾ കുറച്ച് ഡിലേയ് ബജറ്റിംഗ് വരുത്തുന്നു അതിനർത്ഥം ഞങ്ങൾക്ക് അവിടെ എത്ര അധിക ഡിലേയ് ആവശ്യമാണ് അതിനാൽ തുടർന്നുള്ള ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഡിലേയ് ബജറ്റിംഗ് വരുമ്പോൾ ഞങ്ങൾക്ക് ചില ശാരീരിക പ്രക്രിയകൾ ചെയ്യാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് ആ വരികളിലെ ഡിലേയ് ചില മാർഗങ്ങളിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയും ചില ഗേറ്റുകളുടെ ഔട്ട്പുട്ടിൽ ഡിലേയ് ബജറ്റിംഗ് ഇവിടെ എനിക്ക് 2 അധിക യൂണിറ്റ് ഡിലേയ് ആവശ്യമാണെന്ന് നമുക്ക് വ്യക്തമാക്കാം എനിക്ക് ഇവിടെ 3 അധിക യൂണിറ്റ് ഡിലേയ് ആവശ്യമാണ് ഡിലേയ് ബജറ്റിംഗ് വരുത്തുന്ന ചില മാറ്റങ്ങൾ കാലതാമസം വരുത്തുന്ന വിധത്തിൽ ഡയനമിക്കായി കണക്കുകൂട്ടുന്നു അവസാനം ചില ലൈനുകളിലെ ഡിലേയ് വർദ്ധിപ്പിക്കാൻ എനിക്ക് എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന് അത് നൽകും അതിനാൽ ഇവിടെ കുറച്ച് രസകരമായ പോയിന്റുകൾ ഉണ്ട് ഒന്നാമതായി ടൈമിംഗ് ഡ്രൈവൻ ഡിസൈനിൽ ഞങ്ങൾ സാധാരണയായി വയർ ഗേറ്റ് ഡിലേയ് എന്നിവ പരിഗണിക്കുന്നു അതിനാൽ ഞങ്ങൾ അവ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു ഡൈലമ്മ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് ഇത് പോലെ ആദ്യം ചെയ്യേണ്ടതാണ് അതിനാൽ ഞങ്ങൾ ടൈമിംഗ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ വയറുകളുടെ ഭാരം ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ വയർ ഡിലേയ് പരിഗണിക്കുന്നു ഇതിനർത്ഥം കപ്പാസിറ്റീവ് ലോഡുകളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അറിവുണ്ട് യഥാർത്ഥ വയർ കാലതാമസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അറിവുണ്ട് കാരണം കപ്പാസിറ്റീവ് ലോഡുകളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലെങ്കിൽ അതിനാൽ വയർ കാലതാമസത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ വളരെ കൃത്യമല്ലാത്തതാണ് ഇതാണ് പോയിന്റ് രണ്ടാമത്തെ കാര്യം പ്ലെയ്സ്മെന്റും റൂട്ടിംഗും പൂർത്തിയാക്കിയില്ലെങ്കിൽ വയർ ലെങ്ത്സ് ഞങ്ങൾക്ക് അറിയില്ല എന്നതാണ് അതിനാൽ വയർ ലെങ്ത്സ് നമുക്ക് അറിയില്ലെങ്കിൽ കപ്പാസിറ്റീവ് ലോഡുകൾ നമുക്ക് അറിയില്ല അതിനാൽ സമയ ഒപ്റ്റിമൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒപ്റ്റിമൽ രീതിയിൽ പ്ലെയ്സ്മെന്റും റൂട്ടിംഗും ചെയ്യാൻ കഴിയില്ല അതിനാൽ 2 ൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഒരു ആശയക്കുഴപ്പമുണ്ട് നിങ്ങൾ ആദ്യം സമയബോധമുള്ള പ്ലെയ്സ്മെന്റും റൂട്ടിംഗും ചെയ്യണോ അതോ ആദ്യം ടൈമിംഗ് ഒപ്റ്റിമൈസേഷൻ ചെയ്യണോ അതിനാൽ ഈ പ്രതിസന്ധി കാരണം സാധാരണയായി ഈ പ്രക്രിയ കഴിയുന്നത്ര സംയോജിപ്പിച്ചിരിക്കുന്നു അവ പൂർത്തിയായി ഏതാണ്ട് ഒരേ സമയം കൈകോർത്തു അതിനാൽ 0 സ്ലാക്ക് അൽഗോരിതം ഞങ്ങൾ ഒരു സമയ ബജറ്റ് എന്ന ആശയം ഉപയോഗിക്കുന്നു അപ്പോൾ സമയ ബജറ്റ് എന്താണ് ഓരോ നെറ്റിനും ഞങ്ങൾ വയർ നീളത്തിലും ഗേറ്റ് ഡീലേയിലും ചില കാലതാമസം ഏർപ്പെടുത്തുന്നു ഈ സമയ ബജറ്റുകൾ പിന്നീട് മികച്ച ട്യൂണിംഗ് പ്ലേസ്മെന്റിനും റൂട്ടിംഗിനും ഉപയോഗിക്കാം അതിനാൽ ഈ കാലതാമസങ്ങളും വയർ ലെങ്ത്സ് നിയന്ത്രണങ്ങളും നേരിടാൻ കഴിയും അതിനാൽ നമുക്ക് കാണാം ഒരു ഉദാഹരണത്തിലൂടെയും ഞങ്ങൾ ചിത്രീകരിക്കും പക്ഷേ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് അത് നോക്കാം ആദ്യം നമുക്ക് ചില നൊട്ടേഷനുകൾ അവതരിപ്പിക്കാം അതിനാൽ ഒരു നെറ്റ്ലിസ്റ്റ് നിരവധി ഗേറ്റുകൾ ഉൾക്കൊള്ളുന്നുവെന്ന് ഞങ്ങൾ കരുതുന്നു ഗേറ്റുകളെ v1 v2 മുതൽ vn വരെ വിളിക്കാം പിന്നെ ഒരു നെറ് ഒരു കൂട്ടം നെറ്റുകൾ ഞങ്ങൾ പരിഗണിക്കും ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് 3 ഗേറ്റുകളുടെ ഇൻപുട്ടിലേക്ക് പോകുന്നുവെന്ന് കരുതുക ഈ ഗേറ്റ് vi ആണെന്ന് കരുതുക തുടർന്ന് ഈ പരസ്പരബന്ധം ഈ ഔട്ട്പുട്ട് 3 സ്ഥലത്തേക്ക് പോകുന്നു ഇത് ഒരൊറ്റ നെറ്റാണ് ഈ നെറ് ഞാൻ ei എന്ന് വിളിക്കുന്നു അതിനാൽ ei എന്നത് ഗേറ്റ് vi യുടെ ഔട്ട്പുട്ട്ട്ടിന് അനുയോജ്യമായ വലയാണ് അതിനാൽ ei ഗേറ്റ് v യുടെ ഔട്ട്പുട്ട് നെറ്റ് t v t e എന്നിവ യഥാക്രമം ഗേറ്റ് ഡിലേയ് വയർ ഡിലേയ് എന്നിവ സൂചിപ്പിക്കുന്ന പരസ്പരബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന അത്തരം ഒരു കൂട്ടം നെറ്റുകൾ ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ ഇവിടെ ഉദാഹരണമായി ഈ ഉദാഹരണത്തിൽ ഞാൻ t of vi എന്ന് പറയുമ്പോൾ ഈ ഗേറ്റിന്റെ ഡിലേയ് എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ t of ei എന്ന് പറയുമ്പോൾ ഇത് ഈ മുഴുവൻ വലയുടെയും ഡിലേയ് പരിഗണിക്കും ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ടുകളിലേക്ക് പോകുന്നു ഈ കവാടങ്ങളിൽ നിന്ന് ഈ മുഴുവൻ നെറ്റുകൾടെ ഏറ്റവും മോശം അവസ്ഥ അതിനാൽ ഞങ്ങൾക്ക് 2 പരാമീറ്ററുകൾ ഉണ്ട് t vi plus t ei അതിനാൽ vi യുടെ ഇൻപുട്ടിലേക്ക് ചില സിഗ്നൽ വരുന്നുണ്ടെന്നും അത് അടുത്ത ഗേറ്റുകളുടെ ഇൻപുട്ടിൽ എത്തുന്നുവെന്നും ഞങ്ങൾ പറയുമ്പോൾ അതിനാൽ മൊത്തം സമയം t vi കൂടാതെ t ei റൈറ്റ് ആയിരിക്കും അതിനാൽ ഇവ നൊട്ടേഷനുകളാണ് ഈ 0 സ്ലാക്ക് അൽഗോരിതം എന്താണ് ചെയ്യുന്നത് അത് നെറ്റ് ലിസ്റ്റ് ഇൻപുട്ടായി എടുക്കുന്നു കൂടാതെ ഇവിടെ നെഗറ്റീവ് സ്ലാക്കുകൾ ഇല്ലെന്ന് ഞാൻ ഒരു കാര്യം അനുമാനിക്കുന്നു നെഗറ്റീവ് സ്ലാക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകം ചില ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ട് എല്ലാ പോസിറ്റീവുകളും മാറും അതിനാൽ ഈ സ്ലാക്ക് മൂല്യങ്ങൾ കണക്കാക്കുന്ന ഒരു നെറ്റ്ലിസ്റ്റ് എനിക്ക് ലഭിച്ചുകഴിഞ്ഞാൽ ഈ സ്ലാക്കുകൾ ആ പോയിന്റിൽ നിന്ന് ആരംഭിക്കാൻ അനുകൂലമാണ് അതിനാൽ ഞങ്ങൾ പോസിറ്റീവ് സ്ലാക്കുകൾ കുറയ്ക്കുകയും അവ 0 ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് സ്ലാക്കുകൾ കുറയ്ക്കാൻ കഴിയും യഥാർത്ഥ എത്തിച്ചേരൽ സമയം കൂടാതെ സ്ലാക്കുകൾലുള്ള വരവ് സമയം ആവശ്യമാണ് അതിനാൽ ഈ സ്ലാക്ക് എനിക്ക് എങ്ങനെ കുറയ്ക്കാനാകും മന്ദഗതിയിലുള്ള ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള വരവ് സമയവും യഥാർത്ഥ വരവ് സമയവും ആയി നിർവചിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു സ്ലാക്ക് 0 നേക്കാൾ വലുതാണ് പോസിറ്റീവ് അതായത് RAT AAT നേക്കാൾ വലുതാണ് അതിനാൽ ഞാൻ അത് എങ്ങനെ 0 ആക്കാം AAT വർദ്ധിപ്പിച്ച് എനിക്ക് അത് 0 ആക്കാം അതിനാൽ എനിക്ക് എങ്ങനെ ഈ AAT വർദ്ധനവ് ഉണ്ടാക്കാനാകും അതിനാൽ ഒന്നുകിൽ എനിക്ക് t vi പോലുള്ള ഗേറ്റുകളുടെ കാലതാമസം വർദ്ധിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ t eiഇയുടെ കാലതാമസം വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഗേറ്റുകളുടെ ഡിലേയ് ഗേറ്റുകൾ ചെറുതാക്കിക്കൊണ്ട് അവയെ ചെറുതാക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും അതിനാൽ ഉചിതമായ റൂട്ടിംഗിലൂടെ എനിക്ക് ഇന്റർകണക്ഷൻ ഡിലേയ് വർദ്ധിക്കാൻ കഴിയും അതിനാൽ ഒരു നേരായ റൂട്ടറിനുപകരം എനിക്ക് ഒരു സിഗ് സാഗ് തരത്തിലുള്ള ഒരു റൂട്ട് ഉണ്ടാക്കാം തുടർന്ന് ഇതുപോലെ റൂട്ട് ചെയ്യാം അതിനാൽ ഏകദേശം ആശയം ഇതാണ് നല്ലത് അതിനാൽ t v t e എന്നിവയുൾപ്പെടെ ഞങ്ങൾ ചെയ്യുന്നത് ടൈമിംഗ് ബജറ്റ് രൂപീകരിക്കുന്ന t vt e എന്നിവ വർദ്ധിപ്പിച്ച് 0 ലേക്ക് കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനാൽ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് v യ്ക്കുള്ള സമയ ബജറ്റ് നിർവചിച്ചിരിക്കുന്നത് ആ പ്രത്യേക ഗേറ്റിന്റെ ഡിലേയ് കൂടാതെ ഔട്ട്പുട്ട് നെറ്റ് ഡിലേയ് എന്നിവയാണ് അതിനാൽ ഇത് ആ നോഡിന്റെ മൊത്തം ടൈമിംഗ് ബജറ്റിനോട് യോജിക്കുന്നു അതിനാൽ ടൈമിംഗ് ബജറ്റുകൾ കണക്കാക്കുകയും സ്ലാക്കുകൾ 0 ആയി കുറയുകയും ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശ്യം ലേയൌട്ടിന്റെ ഭൌതിക പാരാമീറ്ററുകൾ ഉചിതമായി ക്രമീകരിച്ച് ഒന്നുകിൽ ഗേറ്റ് ചെറുതാക്കുക വയറുകൾ നീളമുള്ളതാക്കുക തുടങ്ങിയവ വയറുകൾ നേർത്തതാക്കുന്നത് നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ t v കവിയുന്നുവെങ്കിൽ നിങ്ങൾ അത് ചെറുതാക്കണം അപ്പോൾ നിങ്ങൾക്ക് വയർ ലെങ്ത് കുറയ്ക്കാം നിങ്ങൾക്ക് ഗേറ്റിന്റെ വലുപ്പം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ മറ്റ് വഴിയാണെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം ഇപ്പോൾ ഡിലേയ് ആഘാതം പലപ്പോഴും കണക്കാക്കുന്നത് എൽമോർ ഡിലേയ് മോഡൽ ഉപയോഗിച്ചാണ് കാരണം നിങ്ങൾ കപ്പാസിറ്റീവിന്റെയും പ്രതിരോധശേഷിയുടെയും താരതമ്യേന കൃത്യമായ കണക്കുകൂട്ടൽ നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റ് ലൈനുകളുടെ അയൽപക്കത്തിന്റെ ഫലങ്ങൾ ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ പ്രതിരോധത്തെയും കപ്പാസിറ്റൻസിനെയും കുറിച്ച് ഞങ്ങൾക്ക് ന്യായമായ ഒരു കണക്ക് ലഭിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും നമുക്ക് എങ്ങനെ ഈ എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കാം ഡിലേയ് സംബന്ധിച്ച് ന്യായമായ കണക്കുകൂട്ടൽ നടത്താൻ നിങ്ങൾക്ക് എൽമോർ കാലതാമസം മാതൃക ഉപയോഗിക്കാം ആ കണക്കുകൂട്ടൽ എങ്ങനെ ശരിയാക്കാം അതിനാൽ ഒരു ടൈമിംഗ് പാതയിൽ വയറിന്റെ ഭൂരിഭാഗവും ടൈമിംഗ് ബജറ്റിനുള്ളിൽ എഡ്ജുകൾ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയാൽ പാതയ്ക്ക് സമയ പരിമിതികൾ നിറവേറ്റാൻ സാധ്യതയുണ്ട് മുഴുവൻ പാതയും ആർക്കുകൾ അവരുടെ സമയ ബജറ്റ് മറികടക്കുന്നു അതിനാൽ ഒരു പ്രോസസ്സ് കർവ് റീ ബഡ്ജറ്റിംഗ് മാർഗ്ഗമുണ്ട് ഇത് ഒരു ആവർത്തന പ്രക്രിയയാണ് അവിടെ സമയ ബജറ്റുകൾ കണക്കാക്കുകയും കൂടാതെ ഒരു ആവർത്തന രീതിയിൽ പരിഷ്ക്കരിച്ചത് അതിനാൽ അവസാനം നിങ്ങൾ അന്തിമ മൂല്യങ്ങൾ നേടേണ്ടതുണ്ട് അവസാനം ഇത് വീണ്ടും ബജറ്റ് ചെയ്യൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ 0 സ്ലാക്ക് അൽഗോരിതം ഞങ്ങൾ വിശദീകരിക്കും ആദ്യം അടിസ്ഥാന ഘട്ടങ്ങൾ നോക്കാം നിങ്ങൾ ഘട്ടങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം സ്റെപ്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നെറ്റ്ലിസ്റ്റ് നൽകിയാൽ പരമ്പരാഗത സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനമാണ് ആദ്യ പടി എന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾ AAT RAT സ്ലാക്ക് മൂല്യങ്ങൾ എന്നിവ കണക്കാക്കുന്നു അതിനാൽ എല്ലാ നോഡുകളുടെയും സ്ലാക്ക് മൂല്യങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കുന്നു നിങ്ങൾ ഒരു നോഡ് തിരഞ്ഞെടുക്കുക അതിനെ ഏറ്റവും ചെറിയ പോസിറ്റീവ് സ്ലാക്ക് ഉള്ള v min എന്ന് വിളിക്കാം ഇവിടെ സ്ലാക്ക് മൂല്യങ്ങൾ എല്ലാം പോസിറ്റീവ് ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു കാരണം ഒരു സ്ലാക്ക് മൂല്യം നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അത് എടുക്കുന്നില്ല നെഗറ്റീവ് സ്ലാക്ക് മൂല്യങ്ങൾക്ക് ലേയൌട്ടിലേക്ക് നന്നായി ചില ജോമെട്രിക് മോഡിഫിക്കേഷൻ ഉപയോഗിച്ച് ഈ സമയ വിശകലനം കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഞങ്ങൾ വെർട്ടക്സ് v min കണ്ടെത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞ പോസിറ്റീവ് സ്ലാക്ക് ഉപയോഗിച്ച് നിങ്ങൾ പാത കണ്ടെത്തുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു നെറ്റ്ലിസ്റ്റ് ഉണ്ട് നിങ്ങൾ V min എന്ന ഒരു വെർട്ടെക്സ് കണ്ടെത്തി നിങ്ങളുടെ അടുത്ത ഘട്ടം മറ്റ് ചില വെർട്ടെക്സ്ളിലൂടെ ഒരു പാത കണ്ടെത്തുക എന്നതാണ് V1 എന്ന് പറയട്ടെ V2 എന്ന് പറയട്ടെ V3 പറയട്ടെ ഇതാണ് പാത്ത് ഈ പ്രത്യേക നോഡിന് കുറഞ്ഞ സ്ലാക്ക് ഉള്ള ഒരു വഴി അതിനാൽ ഇതെല്ലാം സ്ലാക്ക് മീനിന്റെലുള്ളതാണ് ഞാൻ പറയുന്നത് ഈ പാത സ്ലാക്ക് മീനിന്റെ മൂല്യത്തിൽ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് ഈ ആധിപത്യത്തിന്റെ അർത്ഥമെന്താണ് നമ്മൾ ഇവിടെയുള്ള കാലതാമസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒന്നുകിൽ വലകളുടെയോ വെർട്ടെക്സ്ളുടെയോ കാലതാമസത്തിൽ സ്ലാക്ക് മീനിംഗും ഇതിനർത്ഥം ആധിപത്യം പുലർത്തുന്നതാണോ അതിനാൽ ഈ വസ്തു സത്യമാണെന്ന് എനിക്ക് സർക്യൂട്ടിൽ ഒരു പാത കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ഒരുമിച്ച് ഒരു പാതയാണെന്ന് നിങ്ങൾ കരുതുന്നു അതിനാൽ രണ്ടാമത്തെ വഴി പറയുന്നു അത്തരമൊരു പാത കണ്ടെത്താൻ അർത്ഥമാക്കുന്നത് ഡിലേയ് ഏത് മാറ്റവും പാതയിലെ വെർട്ടക്സിൽ സ്ലാക്കിലുള്ള അർത്ഥം മാറാൻ ഇടയാക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഘട്ടം പ്രധാനപ്പെട്ടതാണെന്ന് കരുതുക നമുക്ക് മനസ്സിലാക്കാം ഈ വെർട്ടക്സിൽ നിങ്ങളുടെ സ്ലാക്ക് സ്ലാക്ക് മൂല്യം 6 പ്ലസ് 6 ആണെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഈ സ്ലാക്ക് മൂല്യം 0 ആക്കണം അതിനാൽ ഈ സ്ലാക്ക് മൂല്യം 5 നിങ്ങൾ ഈ ശീർഷങ്ങൾക്കിടയിൽ പാതയിലൂടെ വിതരണം ചെയ്യാൻ ശ്രമിക്കുക അതിനാൽ v1 v2 v 3 ഉണ്ട് പറയുക നിങ്ങൾ ഇവിടെ പ്ലസ് 2 ചേർക്കുന്നു നിങ്ങൾ പ്ലസ് 2 ഇവിടെ ചേർക്കുന്നു നിങ്ങൾ പ്ലസ് 1 ഇവിടെ ചേർക്കുന്നു അതിനാൽ ഈ സ്ലാക്ക് മൂല്യം 5 ഈ സ്ലാക്ക് മൂല്യത്തിലുടനീളം ഞങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നു അതിനാൽ ഇവിടെ 5 എന്തായിരുന്നു ഇപ്പോൾ ഇത് 0 ആയി ശരിയാണ് ഇതാണ് അടിസ്ഥാന ആശയം നിങ്ങൾ പാതയിലെ എല്ലാ വെർട്ടെക്സിലും സ്ലാക്ക് മൂല്യം വിഭജിക്കാനോ വിതരണം ചെയ്യാനോ ശ്രമിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം ഈ സ്ലാക്ക് ശരാശരി 0 ന് തുല്യമാക്കുക എന്നതാണ് അതിനാൽ ഇത് മൂന്നാമത്തെ ഘട്ടമാണ് അതിനാൽ ഓരോ ബജറ്റ് വർദ്ധനവും നിങ്ങൾ ചെയ്യുന്നതെന്തും ഒരു വെർട്ടെക്സിന്റെ മന്ദഗതിയിലുള്ള മൂല്യം കുറയ്ക്കും അതിനാൽ നിങ്ങൾ ഒരു വെർട്ടെക്സിന്റെ ഡിലേയ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ v1 അതിനാൽ നിങ്ങൾ ഡിലേയ് ബജറ്റ് 2 വർദ്ധിപ്പിക്കുന്നു എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ യഥാർത്ഥ വരവ് സമയം 2 വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾ യഥാർത്ഥ വരവ് സമയം 2 വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ലാക്ക്ഉം 2 ഉം കുറയ്ക്കുന്നു RAT മൈനസ് AAT ന് തുല്യമാണ് അതിനാൽ ഒരു നോഡിന്റെ സമയ ബജറ്റിലെ വർദ്ധനവും സ്ലാക്ക് മൂല്യത്തിൽ കുറവുണ്ടാക്കും അതിനാൽ സ്ലാക്ക് മൂല്യങ്ങൾ എല്ലാം ഉയർന്ന പോസിറ്റീവ് മൂല്യത്തിൽ നിന്ന് കുറഞ്ഞ മൂല്യങ്ങളിലേക്ക് താഴേക്ക് പോകും അതിനാൽ ഓരോ ബജറ്റ് ഇൻക്രിമെന്റും ഒരു വേർട്ടക്സ്ന്റെ മന്ദഗതിയിലുള്ള മൂല്യം കുറയ്ക്കും എന്ന് സൂചിപ്പിക്കുന്നത് ഇതാണ് അതിനാൽ ഈ മാറ്റം വരുത്തിയതിനുശേഷം നിങ്ങൾ പ്രക്രിയ ആവർത്തിക്കുന്നു നിങ്ങൾ വീണ്ടും ഈ സ്ലാക്ക് മൂല്യങ്ങൾ വീണ്ടും കണക്കുകൂട്ടുന്നു നിങ്ങൾ വീണ്ടും മിനിമം സ്ലാക്ക് നോഡ് കണ്ടെത്തി വീണ്ടും ഒരു വഴി കണ്ടെത്തുക വീണ്ടും വിതരണം ചെയ്യുക ഇത് ആവർത്തിക്കുക അവസാനം ഈ സ്ലാക്ക് മൂല്യങ്ങളെല്ലാം 0 ആയി കുറഞ്ഞു വരുന്നതായി നിങ്ങൾ കണ്ടെത്തും ഇത് 0 സ്ലാക്ക് അൽഗോരിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് അതിനാൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ഇത് വിശദീകരിക്കാം അതിനാൽ പ്രക്രിയ വ്യക്തമാകും അതിനാൽ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും ZSA യുടെ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇതുപോലൊരു ഉദാഹരണം എടുക്കാം 5 ഗേറ്റുകളുണ്ട് അതിനാൽ നമുക്ക് ആദ്യം നൊട്ടേഷനുകൾ മനസ്സിലാക്കാം 4 സാധാരണ ഗേറ്റുകളുണ്ട് ഞാൻ കാണിച്ചുതരുന്നു അതിന് എൻഡ് ഗേറ്റുകളുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗേറ്റുകൾ പ്രശ്നമല് ഗേറ്റുകൾക്കുള്ളിൽ ഞാൻ കാണിച്ച മൂല്യങ്ങൾ ഗേറ്റ് ഡിലേയ് സൂചിപ്പിക്കുന്നു അതിനാൽ ഗേറ്റുകൾ ശരിയായി അളക്കുന്നതിലൂടെ എനിക്ക് ഗേറ്റ് ഡിലേയ് ക്രമീകരിക്കാൻ കഴിയും ഇത് ഇതിനകം ശരിയായി അറിയാം അതിനാൽ നമുക്ക് ഇത് മനസിലാക്കാം കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് ഞാൻ ഈ സർക്യൂട്ട് ഇവിടെ വർക്ക് ചെയ്യുക എനിക്ക് ഇതുപോലൊരു ഗേറ്റ് ഉണ്ടെന്ന് കരുതുക ഇതിന്റെ putട്ട്പുട്ട് മറ്റൊരു ഗേറ്റിലേക്ക് പോകുന്നു ഇത് ഒരു ഡിലേയ് 4 ഇത് മറ്റൊരു ഗേറ്റ് ഡിലേയ് 3 ഇത് മറ്റൊരു ഗേറ്റ് 6 ഇതാണ് ഔട്ട്പുട്ട് ബഫറിന്റെ ഡിലേയ് 0 അതിനാൽ ഇത് നിങ്ങളുടെ സർക്യൂട്ട് പ്രാരംഭ സർക്യൂട്ട് ആണ് അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ വരവ് സമയം ഞാൻ AAT കണക്കാക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം ഇത് എന്താണെന്ന് പറയുക ഞാൻ ഈ A 1 ആണ് ഇത് A ആണ് കാണിക്കുന്നത് ഈ സമയ ഘട്ടങ്ങളിൽ ഇൻപുട്ടുകൾ എത്തിച്ചേരുന്നുവെന്ന് പറയട്ടെ തുടക്കത്തിൽ തന്നെ എല്ലാ ഡിലേയ് ബജറ്റുകളും 0 ന് തുല്യമാണ് ഡിലേയ് ഇല്ല അതിനാൽ നിങ്ങൾ AAT മൂല്യം കണക്കാക്കുകയാണെങ്കിൽ അതിനാൽ വയറുകളുടെ ഈ ഡിലേയ് തുടക്കത്തിൽ 0 ആയി കണക്കാക്കുന്നു അതിനാൽ ഇവിടെ A യുടെ മൂല്യം 1 പ്ലസ് 2 ഈ A ആയിരിക്കും 3 ഇവിടെ അത് 3 പ്ലസ് 4 ആയിരിക്കും A ന് തുല്യമാണ് 7 ഇവിടെ ഇത് 1 പ്ലസ് 3 ഉം 3 പ്ലസും ആയിരിക്കും അതിൽ ഏതാണ് വലുത് 6 6 ഉം 13 ഉം ഏതാണ് വലുത് പ്ലസ് 6 13 7 പ്ലസ് 6 6 പ്ലസ് 0 6 ഇവയാണ് വരവ് സമയം അതുപോലെ നിങ്ങൾ ആവശ്യമായ എത്തിച്ചേരൽ സമയം കണക്കുകൂട്ടുകയാണെങ്കിൽ ഈ നോഡിന് ആവശ്യമായ എത്തിച്ചേരൽ സമയം 17 ആയി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കരുതുക ഈ നോഡിന് ഇത് 14 എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നോക്കാം അതിനാൽ ഇതിനായി നിങ്ങൾ വീണ്ടും ഒരു ബാക്ക് സ്ട്രെസ് ചെയ്യുക അതിനാൽ നിങ്ങൾ ഇവിടെ തിരികെ പോയാൽ 17 മൈനസ് 6 ആകും അത് 11 നിങ്ങൾ ഇവിടെ വന്നാൽ 2 പാതകൾ 17 മൈനസ് 6 ഇവിടെ വരുന്നു 14 മൈനസ് 0 ഇവിടെ വരുന്നു അതിനാൽ ഇത് ചുരുങ്ങിയത് 11 ആകും R തുല്യമാണ് 7 ഇവിടെ R എന്നത് 11 ന് തുല്യമാണ് അതിനാൽ ഇത് 11 മൈനസ് 4 7 മൈനസ് 2 ആയിരിക്കും ഇത് 5 ആയിരിക്കും അതിനാൽ നിങ്ങൾ യഥാർത്ഥ എത്തിച്ചേരൽ സമയവും ആവശ്യമായ എത്തിച്ചേരൽ സമയവും കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലാക്ക് RAT മൈനസ് AAT കണക്കാക്കാം ഇവിടെ എന്തായിരിക്കും സ്ലാക്ക് S ഇവിടെ 5 ആകും S 6 7 മൈനസ് 1 S 5 S 4 S 5 S ആയിരിക്കും 8 ഇവിടെ S ആയിരിക്കും 4 ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ 3 മൂല്യങ്ങളെ ഒരു ടോപ്പിൾ രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു അവിടെ അവൻ ആദ്യം യഥാർത്ഥ വരവ് സമയം കാണിക്കുന്നു തുടർന്ന് ഈ സ്ലാക്ക് പിന്നെ ആവശ്യമായ വരവ് സമയം ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ബ്രാക്കറ്റിനുള്ളിൽ ഞങ്ങൾ ടൈമിംഗ് ബജറ്റ് കാണിക്കുന്നു ആ ടൈമിംഗ് ബജറ്റ് യഥാർത്ഥത്തിൽ ഗേറ്റിന്റെ ഡിലേയ് ഔട്ട്പുട്ട് നെറ്റ് ഡിലേയ് സൂചിപ്പിക്കും അതിനാൽ ഞങ്ങൾ അവരെ ഒരുമിച്ച് പരിഗണിക്കുന്നു ചില നോഡുകൾക്കായി t b കണക്കാക്കുന്നത് ഞാൻ കണ്ടെത്തിയെന്ന് കരുതുക 5 അതിനാൽ എന്റെ ഗേറ്റ് ഡിലേയ് നെറ്റ് ഡിലേയ് മൊത്തം 5 ആയിരിക്കണം അങ്ങനെ ഞാൻ അത് ക്രമീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് നൊട്ടേഷണൽ കണ്ടെൻഷനാണ് അതിനാൽ കണക്കാക്കിയതുപോലെ ഈ പ്രാരംഭ മൂല്യങ്ങളുള്ള ഇവ അതിനാൽ ഈ ഡയഗ്രം യഥാർത്ഥത്തിൽ അത് കൃത്യമായി കാണിക്കുന്നു അതിനാൽ ഞാൻ കണക്കാക്കിയതെന്തും ഇവയാണ് 5 മൂല്യങ്ങൾ AAT സ്ലാക്ക് RAT 1 4 5 0 5 5 അതിനാൽ ഞാൻ കൃത്യമായി കണക്കുകൂട്ടിയത് ടൈമിംഗ് ബജറ്റ് തുടക്കത്തിൽ എല്ലാ പൂജ്യങ്ങളും ആണെന്ന് അനുമാനിക്കുന്നു അതിനാൽ ഈ ഔട്ട്പുട്ട് O1 O2 ഞാൻ ഇത് പ്രത്യേകം കാണിക്കുന്നു ഇനി നമുക്ക് പടിപടിയായി നീങ്ങാം മിനിമം പോസിറ്റീവ് സ്ലാക്ക് ഉപയോഗിച്ച് നോഡ് നിങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് ആദ്യപടി പറയുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്നു അവിടെ ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് സ്ലാക്ക് 4 അതിനാൽ നിങ്ങൾ ഏതെങ്കിലും നോഡുകൾ തിരഞ്ഞെടുക്കുക ഈ മുഴുവൻ പാതയും ഒരു ആധിപത്യ പാതയായിരിക്കും അതിനാൽ ചുവപ്പ് അടയാളപ്പെടുത്തിയ പാത കുറഞ്ഞത് 0 സ്ലാക്ക് അല്ലാത്തതായിരിക്കും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത് എടുക്കുമെന്ന് പറയട്ടെ നിങ്ങൾ ഇത് 0 4 ഉണ്ടാക്കി 4 ന്റെ ഈ സ്ലാക്ക് വ്യത്യസ്ത പാതകളിൽ വിതരണം ചെയ്യുക അതിനാൽ ഈ 4 എന്താണെങ്കിലും ഇത് 4 ആയിരുന്നു ഈ 4 നിങ്ങൾ 1 1 1 1 എന്നിങ്ങനെ വിതരണം ചെയ്തു അതായത് നിങ്ങൾ വിതരണം ചെയ്യുന്ന വയറുകളോടൊപ്പം അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഡിലേയ് 4 ആയിരുന്ന സ്ലാക്ക് 4 ആയി കുറയും കാരണം ഇപ്പോൾ പാത്ത് ഡിലേയ് മുഴുവൻ 4 യൂണിറ്റുകൾ വർദ്ധിച്ചു അതിനാൽ സ്ലാക്ക് 4 യൂണിറ്റുകൾ കുറയ്ക്കും ഇതാണ് ആദ്യപടി അതിനാൽ ഇത് നേരത്തെ 1 4 5 ആയിരുന്നു നിങ്ങൾ ഈ സ്ലാക്ക് 0 ആയി കുറച്ചാൽ ഈ RAT ഉം 1 ആയി മാറും കാരണം RAT മൈനസ് AAT സ്ലാക്ക് ആണ് ഇത് ആദ്യപടിയായിരിക്കും ഇത് 1 അതിനാൽ ഇത് O1 അത് 16 പ്ലസ് 1 ആകും അത് 17 ആകും ഈ t i ഉപയോഗിച്ച് നിങ്ങൾ ഇതേ പ്രക്രിയ ആവർത്തിക്കുന്നു നിങ്ങൾ കണ്ടെത്തുന്ന അടുത്ത ഘട്ടം 2 ഇതാണ് ഏറ്റവും ചെറിയ പോസിറ്റീവ് സ്ലാക്ക് മറ്റ് നോഡുകൾ ഇതിൽ മാത്രം ആധിപത്യം പുലർത്തുന്നുവെന്ന് ഇതിന് അറിയില്ല അതിനാൽ ഇത് 0 ആയി കുറയ്ക്കുക ഈ സ്ലാക്ക് ഇവിടെ വർദ്ധിപ്പിക്കുക 0 ആയി കുറയ്ക്കുക ഇവിടെ സമയ ബജറ്റ് വർദ്ധിപ്പിക്കുക ഈ വയർ ദൈർഘ്യമേറിയതാക്കുക ഇത് 0 ആക്കുക അതിനാൽ ഇത് 0 ആയി ഈ പ്രക്രിയ ആവർത്തിക്കുക ഇപ്പോൾ 4 ഏറ്റവും ചെറുതാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നമുക്ക് ഈ പാത 4 തിരഞ്ഞെടുക്കാം അതിനാൽ 4 ന്റെ ഈ കാലതാമസം നിങ്ങൾക്ക് സമാനമായി വിതരണം ചെയ്യാൻ കഴിയും 2 ഉം 2 ഉം ആയി വിതരണം ചെയ്യുമെന്ന് പറയട്ടെ അതിനാൽ ഇത് 1 4 5 ആയിരുന്നു അത് 1 ആയി മാറുന്നു 2 അതിനാൽ നിങ്ങൾ ആവർത്തിക്കുന്ന അതേ പ്രക്രിയ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് വീണ്ടും നിങ്ങൾ കാണുന്നു അത് 0 ആയില്ല വീണ്ടും ഇത് 2 ആണ് ഏറ്റവും കുറഞ്ഞത് അതിനാൽ വീണ്ടും അതേ പാത തിരഞ്ഞെടുക്കുക അതിനാൽ ഈ 2 വീണ്ടും 1 1 ഉടനീളം വിതരണം ചെയ്യുക ഇത് 3 ആയി മാറി ഇപ്പോൾ ഈ 2 0 ആകും അതിനാൽ ഇത് 0 ആകും ഇപ്പോൾ 0 അല്ലാത്തവ ഇതും ഇതും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രത്യേക ഘട്ടങ്ങളായി തിരഞ്ഞെടുക്കാം പക്ഷേ ഞാൻ ഒരു ഘട്ടത്തിൽ കാണിക്കുന്നു ഇത് ഒരു പാതയാണ് ഇത് മറ്റൊരു പാതയാണ് അതിനാൽ ഇത് 0 ആക്കാൻ നിങ്ങൾ ഇവിടെ ബജറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇത് 10 4 14 ആകുന്നത് 0 ആണ് ഈ t b 4 ആക്കുക അതിനാൽ അവസാനം നിങ്ങൾ സമയം ബജറ്റ് മൂല്യങ്ങൾ നേടി അത് ഈ വ്യത്യസ്ത വയറുകളുടെ ഡിലേയ് എന്താണെന്ന് സൂചിപ്പിക്കും അങ്ങനെ എല്ലാ വരികളിലും 0 സ്ലാക്ക് കൈവരിക്കാൻ കഴിയും അതിനാൽ 1 4 1 3 1 1 2 3 1 ഇവയാണ് നിങ്ങളുടെ അടുത്ത ഘട്ടത്തിനുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞാൻ അർത്ഥമാക്കുന്നത് റൂട്ടിംഗ് പറയുക എവിടെയാണ് നിങ്ങളുടെ വയറുകൾ യഥാർത്ഥത്തിൽ വലിച്ചിടുക അല്ലെങ്കിൽ ഗേറ്റുകളുടെ വലുപ്പം ഈ ഡിലേയ് മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ ZSA അൽഗോരിതം ഒരു ചെറിയ മാറ്റം വരുത്താം ZSA യഥാർത്ഥത്തിൽ ലേറ്റ് മോഡ് അനാലിസിസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണുന്നു അതിനർത്ഥം ഏറ്റവും മോശമായ ഡിലേയ് ആണ് ഞങ്ങൾ നോക്കുന്നത് അതിനർത്ഥം ഞങ്ങൾ ക്രമീകരിച്ച നിയന്ത്രണങ്ങൾ മാത്രമാണ് നോക്കുന്നത് സിഗ്നൽ ട്രാന്സിഷന്റെ ഏറ്റവും പുതിയ സമയം പക്ഷേ മുഴുവൻ സമയ പരിമിതികളും നോക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു ആദ്യകാല മോഡ് അനാലിസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ZSA അൽഗോരിതം പരിഷ്ക്കരിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ മുഴുവൻ സമയ പരിമിതിയും നോക്കുകയും അൽഗോരിതം ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും അതിനാൽ പരിഷ്ക്കരണം ഇതുപോലെ കാണപ്പെടുന്നു ഇവിടെ ആദ്യകാല യഥാർത്ഥ വരവ് സമയം നിർണ്ണയിക്കണം ഏറ്റവും പുതിയതല്ല സാധാരണയായി നിങ്ങൾ സജ്ജീകരിച്ച നിയന്ത്രണങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും പുതിയ വരവ് സമയങ്ങൾ നോക്കും എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഞങ്ങൾ ഏറ്റവും ചെറിയ വഴികൾ നോക്കും ആദ്യകാല വരവ് സമയം അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യകാല മോഡിലെ യഥാർത്ഥ എത്തിച്ചേരൽ സമയം ആവശ്യമായ വരവ് സമയത്തിന് തുല്യമായതിനേക്കാൾ കൂടുതലായിരിക്കണമെന്ന് ഞങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ അത് വലത്തേതിനേക്കാൾ വലുതാണ് അതിനാൽ ഞങ്ങൾ ഇത് തൃപ്തിപ്പെടുത്തേണ്ടിവരും കാരണം മുഴുവൻ സമയ നിയന്ത്രണങ്ങൾക്കും AAT ഒരിക്കലും ഇതിലും കുറവായിരിക്കില്ല അതിനാൽ സ്ലാക്ക് നിങ്ങൾക്ക് സമാനമായി കണക്കാക്കാം ഇത് കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ZSA അൽഗോരിതം സ്വീകരിക്കാം എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലാക്കുകൾ എല്ലാം കൃത്യമായി 0 ആയി ക്രമീകരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം കാരണം ചില t v യും t മൂല്യവും നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ നേരത്തെ മോഡ് അനാലിസിസ് അതിനാൽ ഇത് ഇവിടെ ഒരു പരിമിതിയാണ് അതുകൊണ്ടാണ് ഇതിനെ ചിലപ്പോൾ 0 സ്ലാക്ക് അൽഗോരിതം എന്ന് വിളിക്കുന്നത് കൃത്യമായി 0 സ്ലാക്ക് അല്ല അതിനാൽ ചുരുക്കിപ്പറയാൻ നമുക്ക് നേരത്തെയുള്ള മോഡ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡ് രണ്ട് തരത്തിലുള്ള 0 സ്ലാക്ക് അനാലിസിസ് നടത്താം അതിനാൽ ഇത് നേരത്തെയുള്ള മോഡ് ബജറ്റിനെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ ചില ഡിലേയ് ചേർക്കുന്നതിലൂടെ ഡിലേയ് തടസ്സപ്പെടുത്താൻ കഴിയും എന്നാൽ നിങ്ങൾ കുറച്ച് ഡിലേയ് ചേർക്കുകയാണെങ്കിൽ ചില ലേറ്റ് മോഡ് പരിമിതികൾ അത് ലംഘിച്ചേക്കാം അതിനാൽ സാധാരണയായി ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ലേറ്റ് മോഡ് അനാലിസിസ് പരിഗണിക്കുകയും സർക്യൂട്ട് ആ രീതിയിൽ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുക എന്നതാണ് ആദ്യകാല മോഡ് അനാലിസിസ് തൃപ്തികരമാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് നിങ്ങൾ നേരത്തെയുള്ള മോഡ് അനാലിസിസ് ഉപയോഗിക്കുന്നു കാരണം സാധാരണയായി സമയ നിയന്ത്രണങ്ങൾ സജ്ജീകരിക്കുന്ന സമയ പരിമിതികൾ പോലെ ഗുരുതരമല്ല അതിനാൽ ആദ്യം നിങ്ങൾ ലേറ്റ് മോഡ് അനാലിസിസ് നടത്തുക തുടർന്ന് ഏത് ആദ്യകാല മോഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു എന്നിട്ടും നിങ്ങൾ ഈ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് ട്യൂൺ ചെയ്ത് അവ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് ഞാൻ കരുതുന്നു